സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്റ്റിക്കൽ അപ്പ്രോച്ചിന്റെ ഈ പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള പാഠം ചർച്ച ചെയ്യും പ്രധാനമായും ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 Consumer Protection Act 1986 ചർച്ച ചെയ്യും ഇന്ത്യയിലെ 1986 ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ 1962 മാർച്ച് 15 ന് യുഎസ്എയുടെ മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് യുഎസ് സെനറ്റിൽ ആദ്യമായി സംസാരിച്ചു സുരക്ഷയ്ക്കുള്ള അവകാശം അറിയിക്കാനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം എന്നിവയുൾപ്പെടെ 4 ഉപഭോക്തൃ അവകാശങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു എല്ലാ വർഷവും മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആഘോഷിക്കുന്നു 1986 ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ വിഭാവനം ചെയ്ത 6 ഉപഭോക്തൃ അവകാശങ്ങൾ ഇന്ത്യ അംഗീകരിച്ചു ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ താഴെ പറയുന്നവയാണ് ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണനിലവാരം അളവ് ശക്തി പരിശുദ്ധി നിലവാരം വില എന്നിവയെക്കുറിച്ച് അറിയിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനുള്ള അവകാശം സാധ്യമാകുമ്പോഴെല്ലാം മത്സരാധിഷ്ഠിത വിലകളിൽ പലതരം സാധനങ്ങൾ ആക്സസ് ചെയ്യുക കേൾക്കാനുള്ള അവകാശവും ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ ഉചിതമായ ഫോറങ്ങളിൽ പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പുനൽകുന്നതിനുമുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനും ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനും എതിരായ പരിഹാരം തേടാനുള്ള അവകാശം അതിനാൽ ഈ നിയമത്തിന്റെ വ്യാപ്തി 2002 ൽ വിപുലീകരിക്കപ്പെട്ടു സെക്ഷൻ 2 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നൽകിയിരിക്കുന്ന സേവനത്തിന്റെ നിർവചനം സേവനമെന്നാൽ സേവനത്തിനായി പണമടക്കാൻ തയ്യാറുള്ള ഉപയോക്താക്കൾക്ക് ലഭ്യമായ ഏത് വിവരണത്തിന്റെയും സേവനം എന്നാണ് ബാങ്കിംഗ് ഫിനാൻസിംഗ് ഇൻഷുറൻസ് ഗതാഗതം പ്രോസസ്സിംഗ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മറ്റ് ഊർജ്ജം ബോർഡ് അല്ലെങ്കിൽ ലോഡ്ജിംഗ് അല്ലെങ്കിൽ ഭവന നിർമ്മാണം വിനോദം വിനോദം അല്ലെങ്കിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ വാർത്തകൾ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുകയും എന്നാൽ അതിൽ പരിമിതപ്പെടുന്നുമില്ല എന്നാൽ ഏതെങ്കിലും സേവന ഫീസ് അല്ലെങ്കിൽ ചാർജ് അല്ലെങ്കിൽ വ്യക്തിഗത സേവനങ്ങളുടെ കരാർ പ്രകാരം റെൻഡറിംഗ് ഉൾപ്പെടുന്നില്ല അതിനാൽ സൌജന്യ മെഡിക്കൽ സേവനങ്ങൾ നിയമത്തിന്റെ പരിധിക്ക് പുറത്താണ് ഒരു വേലക്കാരി നൽകുന്ന സേവനങ്ങൾ വ്യക്തിഗത സേവനത്തിന്റെ കരാറിലാണ് വീട്ടുടമസ്ഥന് വേലക്കാരിയെ എപ്പോൾ വേണമെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിയും അതിനാൽ ഗൃഹനാഥൻ ഒരു വീട്ടുജോലിക്കാരിയായ ജോലിക്കാരിയുടെ സേവനം വാങ്ങുന്നില്ല അതനുസരിച്ച് വീട്ടുജോലിക്കാരിക്ക് സേവനം നൽകുന്നതിലെ പോരായ്മയെക്കുറിച്ച് പരാതിപ്പെടാൻ കഴിയില്ല എന്നിരുന്നാലും ഒരു ഡോക്ടർ തന്റെ രോഗിക്ക് നൽകുന്ന സേവനം വ്യക്തിഗത സേവനത്തിനുള്ള കരാറിലാണ് അതിനാൽ ഒരു രോഗിക്ക് ഒരു ഡോക്ടർ നൽകുന്ന വികലമായ സേവനത്തിന് രോഗിക്ക് പരാതിപ്പെടാനും പരിഹാരം തേടാനും കഴിയും ഒരു സ്ഥാപനം ജീവനക്കാർക്ക് മാത്രമായി നടത്തുന്ന കാന്റീൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സേവനങ്ങൾ സേവനത്തിനായി പണമടയ്ക്കാൻ താൽപ്പര്യമുള്ള ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്നതിനല്ല അതിനാൽ അത്തരം സേവനങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ന്റെ പരിധിയിൽ വരുന്നില്ല ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ പണിമുടക്കാൻ തീരുമാനിക്കുമ്പോൾ ഓർഗനൈസേഷന്റെ ഉപഭോക്താക്കൾ ആശ്ചര്യപ്പെടാതിരിക്കാനും മുൻകൂട്ടി തയ്യാറാകാനും ഒരു സമരം ആസന്നമാണെന്ന് ഒരു പ്രമുഖ പത്രത്തിൽ സംഘടന ഒരു പരസ്യം ചേർക്കണം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി